ഈ പ്രഭാഷണത്തിൽ ഇൻഡസ്ട്രി 4 0 വിപ്ലവം നിലനിർത്തുന്നതിനുള്ള ചില സുപ്രധാന ആശയങ്ങളിലൂടെ നമ്മൾ പോകാൻ പോകുന്നു അതിനാൽ അടിസ്ഥാനപരമായി വേണ്ടത് പുതിയ സാങ്കേതികവിദ്യകൾ പുതിയ തരം സേവനങ്ങൾ തുടങ്ങിയവയുടെ വികസനം വികസനം മാത്രമല്ല പുതിയ സംവിധാനങ്ങൾ പുതിയ രീതികൾ പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവ നിലനിർത്താൻ കഴിയുക എന്നതാണ് അതിനാൽ പുതുതായി അവതരിപ്പിച്ച ആശയങ്ങൾ സാങ്കേതികവിദ്യകൾ രീതികൾ എന്നിവയുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നതാണ് അടിസ്ഥാനപരമായി വേണ്ടത് സുസ്ഥിരത എന്ന വാക്കിന്റെ അർത്ഥം ഒരു നിശ്ചിത നിരക്കിൽ തുടരുക എന്നാണ് ഒരു സുസ്ഥിര വ്യവസായം ഊർജ്ജ കാര്യക്ഷമത വിഭവങ്ങളുടെ സംരക്ഷണം കുറഞ്ഞ മാലിന്യ ഉത്പാദനം എന്നിവ നൽകുന്നു അതിനാൽ അവസാനത്തേത് വളരെ പ്രധാനമാണ് ഊർജ്ജ കാര്യക്ഷമത വളരെ പ്രധാനമാണ് കാരണം ഊർജ്ജത്തെ സംരക്ഷിക്കുന്നതിനും അതുവഴി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും ആഗോളതലത്തിൽ ആശങ്കയുണ്ട് അതിനാൽ പരിസ്ഥിതിയിലെ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിന് ഊർജ്ജ കാര്യക്ഷമത തീർച്ചയായും വളരെ പ്രധാനമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ അളവ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉൽപാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കണമെന്നും ഉറപ്പാക്കുക എന്നതാണ് അതിനാൽ അത് സുസ്ഥിരമായ നിർമ്മാണ രീതി സുസ്ഥിരമായ ഉൽപാദന രീതി അല്ലെങ്കിൽ വികസനം ആയിരിക്കും അതിനാൽ സുസ്ഥിരമായ നിർമ്മാണ വ്യവസായങ്ങളുടെ പശ്ചാത്തലം നമുക്ക് പരിഗണിക്കാം ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ മുൻ വ്യവസായ വിപ്ലവത്തിന്റെ സവിശേഷതകൾ കൂടുതൽ സുസ്ഥിരമായ രീതിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നിർദ്ദേശം അതിനാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമല്ല മുമ്പത്തെ വ്യാവസായിക വിപ്ലവങ്ങളിൽ നിന്ന് നിലവിലുള്ളതെന്തും മുമ്പത്തെ അതേ രൂപത്തിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നതിനും ഒരേ കാര്യങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതും സുസ്ഥിരവുമായ രീതിയിൽ തുടരുന്നതിന് അത് ഒറ്റത്തവണ ദയയുള്ള കാര്യമായി മാറരുത് ഇൻഡസ്ട്രി 4 0 അല്ലെങ്കിൽ നാലാമത്തെ വ്യാവസായിക വിപ്ലവം ഒരു സമഗ്ര വ്യാവസായിക വിപ്ലവമാണ് ഇത് ഈ സുസ്ഥിരത പ്രശ്നം കണക്കിലെടുക്കുന്നു കാരണം ഇത് പുതിയ ആശയങ്ങളും പുതിയ സാങ്കേതികവിദ്യകളും അവതരിപ്പിക്കുന്നു പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരത ഉറപ്പാക്കുന്നു വ്യവസായ 4 0 ആഗോളവൽക്കരണവും ഉയർന്നുവരുന്ന പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നു നമ്മൾ ആദ്യം സുസ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ കാര്യത്തിൽ ചില വ്യവസായങ്ങൾ നിർമ്മാണ വ്യവസായം എന്നിവ പരിഗണിക്കുകയും സുസ്ഥിരതാ പ്രശ്നങ്ങൾ വിലയിരുത്തുകയും വേണം ആദ്യം നിങ്ങൾ നിർണയിക്കേണ്ടത് പ്രത്യേക വ്യവസായത്തിൽ എത്രത്തോളം സുസ്ഥിരമാണ് പ്രക്രിയകൾ നിലവിലുള്ളത് അല്ലെങ്കിൽ പ്രക്രിയകൾ അല്ലെങ്കിൽ ഉൽപന്നങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഒരു നിർമ്മാണ വ്യവസായം ആധുനിക വ്യാവസായിക സമൂഹത്തിന്റെ അടിത്തറയായി കണക്കാക്കപ്പെടുന്നു ഇത് ലോക സമ്പദ്വ്യവസ്ഥയുടെ ആധാരശിലയാണ് ഈ സുസ്ഥിരത കണക്കാക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും എസ് എന്നതിലൂടെ ഈ പദം എസ്ഡി വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ഈ എസ് ഓവർ എസ്ഡി വ്യത്യസ്ത പ്രശ്നങ്ങളെ പരിഗണിക്കുന്നു ആഗോളവൽക്കരണത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത പാരാമീറ്ററുകൾ സുസ്ഥിര വ്യവസായങ്ങളുടെ ഒരു പ്രധാന ഡ്രൈവറായി കണക്കാക്കപ്പെടുന്നു ആഗോളവൽക്കരണ പ്രശ്നങ്ങൾ ഏതെങ്കിലും വികസനത്തിന്റെയോ ഏതെങ്കിലും നിർമ്മാണത്തിന്റെയോ ഏതെങ്കിലും ഉൽപാദന സംവിധാനത്തിന്റെയോ സുസ്ഥിരതയെ ബാധിക്കുന്നു ആഗോളവൽക്കരണത്തിന്റെ അഞ്ച് വ്യത്യസ്ത ഘടകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു അതിനാൽ ആദ്യത്തേത് ബിസിനസ്സ് മോഡലുകളാണ് അടുത്തത് ഊർജ്ജ വില വിവര ആശയവിനിമയ സാങ്കേതികവിദ്യ സ്വീകരണം വിതരണ ശൃംഖല മാനേജ്മെന്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നിർമ്മാണ പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന വിപണികളെ ഉൾപ്പെടുത്തൽ അതിനാൽ ഇവയാണ് ചില സുപ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന് പിന്നിലെ മൂലക്കല്ലുകൾ നമ്മൾ വിതരണ ശൃംഖല മാനേജ്മെന്റിൽ അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് വിതരണ ശൃംഖല മാനേജ്മെന്റിനെക്കുറിച്ചാണ് എസ്സിഎമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഔട്ട്ഴ്സിംഗ് ഘടകങ്ങളോ അസംസ്കൃത വസ്തുക്കളുടെ ഭാഗങ്ങളോ ചെയ്യുന്നതിന് ഇത് അടിസ്ഥാനപരമായി ആവശ്യമാണ് വ്യത്യസ്ത വിതരണ ശൃംഖല മാനേജ്മെന്റ് പ്രശ്നങ്ങൾ ഇവയാണ് രണ്ടാമത്തെ കാര്യം ഐസിടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആശയവിനിമയമില്ല ഈ ആശയവിനിമയ സാങ്കേതികവിദ്യ നമ്മൾ വിതരണം ചെയ്യാൻ പോലും വ്യത്യസ്ത ആളുകൾക്കിടയിൽ ആശയവിനിമയം വിതരണം ചെയ്തു ഒരേ ഓർഗനൈസേഷന്റെ വ്യത്യസ്ത ലാബുകൾക്കിടയിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരേ ഓർഗനൈസേഷന്റെ വ്യത്യസ്ത കാമ്പസുകളിൽ അല്ലെങ്കിൽ അത് പോലും ഉൽപന്നങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ നിർമ്മാണത്തിന് സംഭാവന ചെയ്യുന്ന ഒരു പ്രത്യേക സംഘടനയുടെ വ്യത്യസ്ത പങ്കാളികൾക്കിടയിൽ ശരിയായ ആശയവിനിമയം ആവശ്യമാണ് മൊത്തത്തിലുള്ള ഐസിടി വളരെ പ്രധാനമാണ് നമ്മൾ സംസാരിക്കുന്നത് മൊത്തത്തിൽ വലിയ പശ്ചാത്തലത്തിൽ കമ്പ്യൂട്ടറുകളുടെയും ആശയവിനിമയ സാങ്കേതികവിദ്യകളുടെയും ആമുഖം മാത്രമല്ല വ്യവസായത്തിൽ നമ്മൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ മറ്റ് കാര്യങ്ങളും സെൻസറുകൾ പോലെ ആക്റ്റേറ്ററുകളും അവയും മറ്റ് വ്യത്യസ്ത കാര്യങ്ങളും തമ്മിലുള്ള കണക്റ്റിവിറ്റിയും ഉപഭോക്താക്കളും നിർമ്മാതാക്കളും വിതരണക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തേണ്ടത് വളരെ ആവശ്യമാണ് ഈ കമ്പ്യൂട്ടറുകൾ കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യ ആശയവിനിമയ സാങ്കേതികവിദ്യ എന്നിവയുടെ സഹായത്തോടെ അവർ പരസ്പരം വിവരങ്ങൾ പങ്കിടാൻ കഴിയണം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നു വയർലെസ് സഹായത്തോടെ നമ്മൾ ആമുഖത്തിലൂടെ കടന്നുപോയി ട്രാക്ക് ചെയ്യേണ്ട വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യേണ്ട വ്യത്യസ്ത ഇനങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ അല്ലെങ്കിൽ ഏജന്റുമാരുടെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾ ടാഗുചെയ്യേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ഇവയുടെ മൊബിലിറ്റിയും പോർട്ടബിലിറ്റിയും പൂർണ്ണവും കാര്യക്ഷമവുമായ നിരീക്ഷണത്തിന് സഹായിക്കുന്നു മുഴുവൻ ഉൽപാദന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളും ഘടകങ്ങളും രണ്ടാമത്തേത് മൂന്നാമത്തേത് ഊർജ്ജ വിലയാണ് നിങ്ങൾ വൻകിട സംരംഭങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഊർജ്ജ ഉപഭോഗത്തെ മൊത്തത്തിൽ പരിഗണിക്കും അതിനാൽ വലിയ എന്റർപ്രൈസ് എന്നാൽ വലിയ ഊർജ്ജ ഉപഭോഗം എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ അത് പരിസ്ഥിതിക്ക് സുസ്ഥിരവും പ്രയോജനകരവുമാണ് കൂടുതൽ ഊർജ്ജ ഉപഭോഗം അടിസ്ഥാനപരമായി പരിസ്ഥിതിയിൽ വലിയ പ്രത്യാഘാതത്തിലേക്ക് നയിക്കുന്നു അത് വളരെ അഭികാമ്യമല്ല അതിനാൽ സംരംഭങ്ങൾക്ക് ഈ പുതിയ സാങ്കേതികവിദ്യകളുടെ ആമുഖത്തിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഊർജ്ജം ആദ്യം സൃഷ്ടിക്കപ്പെടണം പിന്നീട് കൈമാറ്റം ചെയ്യണം മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തണം തുടർന്ന് ഉപഭോഗം ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങൾ വൈദ്യുതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നു തുടർന്ന് അത് വ്യത്യസ്ത ഗ്രിഡുകളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടുന്നു അത് ഒരു സ്ഥലത്ത് നിന്ന് ജനറേഷൻ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഈ സ്റ്റേഷനിലേക്ക് വൈദ്യുതി സബ്സ്റ്റേഷനുകളിലേക്കും മറ്റ് പോയിന്റുകളിലേക്കും മാറ്റുന്നു അതിനാൽ ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു ഊർജ്ജമായി രൂപാന്തരപ്പെടുന്നു നമ്മളുടെ ഉദാഹരണത്തിൽ വൈദ്യുതി രൂപാന്തരപ്പെടുന്നു വെയർഹൌസുകളിൽ മാറുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ചക്രം എന്തുതന്നെയായാലും ഊർജ്ജ ഉപഭോഗവും ഈ പരിവർത്തനവും ആവശ്യമാണ് എന്തായാലും ഊർജ്ജ ഉപഭോഗം മൊത്തത്തിൽ കുറയുന്നുവെന്ന് ഉറപ്പുവരുത്തുക അടിസ്ഥാനപരമായി നമ്മൾ സമ്പദ്വ്യവസ്ഥയിലും സ്വാധീനം ചെലുത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിസ്ഥിതിയും അതിനാൽ ന്യായമായ വിലയ്ക്ക് ഊർജ്ജ വിതരണവും ആവശ്യമാണ് ഊർജ്ജത്തിന്റെ വില വർദ്ധനവ് നല്ലതല്ല കാരണം നിങ്ങൾ ഊർജ്ജത്തിന്റെ വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഉൽപ്പന്നത്തിന്റെ മൊത്തത്തിലുള്ള വിലയെയോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന സേവനത്തെയോ ബാധിക്കും അത് മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് സുസ്ഥിരമായിരിക്കില്ല ഊർജ്ജ വില വർദ്ധിക്കുന്നത് സുസ്ഥിരതയെ ബാധിക്കുന്നു അത് വ്യത്യസ്ത രീതികളെ ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു സുസ്ഥിരതയ്ക്ക് വ്യത്യസ്ത വശങ്ങളുണ്ട് അതിനാൽ അഭികാമ്യമല്ലാത്തത് ഉൽപ്പന്നത്തിന്റെ വില അല്ലെങ്കിൽ ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സേവനവും അത് ഊർജ്ജ ചെലവും കൂടിയാണ് അത് വർദ്ധിക്കുകയാണെങ്കിൽ പരിസ്ഥിതിയുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രയോജനകരമല്ല ഊർജ്ജ ഉപഭോഗം കുറയ്ക്കേണ്ടത് ആവശ്യമാണ് ഊർജ്ജ ഉപഭോഗം ഊർജ്ജോത്പാദനം പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് മാത്രമല്ല സൌരോർജ്ജം കാറ്റ് തുടങ്ങിയ പുനരുൽപ്പാദിപ്പിക്കാവുന്നവയിൽ നിന്നും ചെയ്യാൻ കഴിയും അടുത്തത് ആഗോളവൽക്കരണ പ്രശ്നം ഉയർന്നുവരുന്ന വിപണികളും അതിന്റെ പരിഗണനയുമാണ് പുതുതായി വികസിപ്പിച്ച നൂതന ഉൽപ്പന്നങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വിപണികൾക്ക് കഴിയും ഉയർന്നുവരുന്ന വിപണികളെക്കുറിച്ച് ഒരു പ്രത്യേക ഉൽപ്പന്നം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽഇത് സാധാരണയായി സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു ഏകാധിപത്യം എന്നാൽ അത് ഒരു കുത്തക തരം പോലെയാണ് ഉൽപ്പന്നം അവതരിപ്പിച്ച കമ്പനിക്ക് അടിസ്ഥാനപരമായി കുത്തകയുണ്ട് പിന്നെ ക്രമേണ അത് സ്വതന്ത്ര കമ്പോളത്തിലേക്കും സ്വതന്ത്ര സമ്പദ്വ്യവസ്ഥയിലേക്കും മാറേണ്ടതുണ്ട് അവിടെ അത് ലോകത്തിന്റെ വലിയ ഭാഗത്തേക്ക് ആക്സസ് ചെയ്യപ്പെടും അതിനാൽ വളർന്നുവരുന്ന വിപണികളുടെ പരിഗണന വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾക്ക്

ബിസിനസ്സ് മോഡലുകൾ നേരിട്ട് ബന്ധമുണ്ട് ആഗോളവൽക്കരണ വീക്ഷണകോണിൽ നിന്ന് ആവശ്യമുള്ളത് നിർമ്മിക്കുന്ന ഉൽപ്പന്നം പ്രാദേശിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹവും നിറവേറ്റണം വലിയ പ്രശ്നങ്ങൾ തന്ത്രപരമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്ത്രപരമായ സമീപനം സ്വീകരിക്കേണ്ട ബിസിനസ്സ് മോഡലുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതായത് ഒരു പ്രത്യേക ഓർഗനൈസേഷൻ ബിസിനസ്സിനായുള്ള ഉയർന്ന തലത്തിലുള്ള പ്രശ്നങ്ങളും മൊത്തത്തിലുള്ള വലിയ പ്രശ്നങ്ങളും ബിസിനസ്സ് മോഡൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അത് മത്സര നേട്ടങ്ങൾ കണക്കിലെടുത്ത് ഉൽപ്പന്ന മൂല്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു എന്റർപ്രൈസസിന്റെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കും ആഗോളവൽക്കരണ പ്രശ്നങ്ങൾ പോലെ ഉയർന്നുവരുന്ന പ്രശ്നങ്ങളും സുസ്ഥിര ഘടകത്തിന് കാരണമാകുന്നു അത്തരം സുസ്ഥിരതയ്ക്ക് കാരണമാകുന്ന ഉയർന്നുവരുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് ഒന്ന് സാങ്കേതികവിദ്യ ജനസംഖ്യാ വളർച്ച സർക്കാർ നിയന്ത്രണം പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗം പ്രതിസന്ധി മാന്ദ്യം വിഷാദം എന്നിവ പരിഗണിക്കുക ഉയർന്നുവരുന്ന പ്രശ്ന വീക്ഷണകോണിൽ നിന്ന് സുസ്ഥിരതാ ഘടകത്തിലേക്ക് അഞ്ച് വ്യത്യസ്ത സംഭാവനകൾ ഇവയാണ് ആദ്യത്തേത് സാങ്കേതികവിദ്യയാണ് എന്നിങ്ങനെ തരം തിരിക്കാം ഹാർഡ്വെയറിനുള്ളിൽ കമ്പ്യൂട്ടർ പോലുള്ള സാധാരണ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം സാങ്കേതികവിദ്യകൾ നമുക്കുണ്ട് സാങ്കേതികവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഹാർഡ്വെയർ സാങ്കേതികവിദ്യയും സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യകളും ഉണ്ട് ഹാർഡ്വെയറിനുള്ളിൽ കമ്പ്യൂട്ടർ സംഖ്യാ നിയന്ത്രണ യന്ത്രങ്ങൾ പോലുള്ള നിർമ്മാണ വ്യവസായങ്ങളിൽ നമ്മൾക്ക് വ്യത്യസ്ത സാങ്കേതികവിദ്യകളുണ്ട് നമ്മൾക്ക് ബാർകോഡുകൾ ബാർകോഡ് ബേസ് ടെക്നോളജി ബാർകോഡ് ഉണ്ട് നമ്മൾക്ക് RFID NFC പോലുള്ള വ്യത്യസ്ത സാങ്കേതികവിദ്യകളുണ്ട് ഇവയെല്ലാം വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇവയാണ് സാങ്കേതികവിദ്യകൾ നിർമാണ വ്യവസായങ്ങളുടെ മൊത്തത്തിലുള്ള പുരോഗതിക്കും അത് കാരണമായിട്ടുണ്ട് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഇആർപി ജിപിഎസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യകൾ പോലുള്ള സാങ്കേതികവിദ്യകളുണ്ട് ജിപിഎസ് തന്നെ ഹാർഡ്വെയറാണ് എന്നാൽ ജിപിഎസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യകളും ഇതുപോലുള്ള മറ്റ് നിരവധി സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യകളും ഉത്പാദിപ്പിക്കുകയും നിർമ്മാണ വ്യവസായങ്ങളുടെ പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്തു ഇവ വളരെ പ്രധാനമാണ് മികച്ച സുസ്ഥിരത കൈവരിക്കുന്നതിന് ഈ വ്യത്യസ്തമായ പുതിയ സാങ്കേതികവിദ്യകളെല്ലാം ഉൾപ്പെടുത്തണം എന്നതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് സാങ്കേതികവിദ്യയിലെ പുരോഗതി ഉയർന്ന നിലവാരമുള്ള ഉൽപന്നങ്ങൾ കുറഞ്ഞ ചിലവിൽ ഉൽപന്നങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉത്പന്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഇവ വളരെ പ്രധാനമാണ് അതിനാൽ ഈ പുതിയ സാങ്കേതികവിദ്യകൾ അവതരിപ്പിക്കുന്നതിലൂടെ വികസിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം അപ്പോൾ ഉൽപാദനച്ചെലവ് കുറവായിരിക്കണം അങ്ങനെ മൊത്തം ഉൽപന്നം കുറഞ്ഞ വിലയ്ക്ക് വിപണിയിലെത്തുകയും വേഗത്തിൽ വിപണിയിലെത്തുകയും ചെയ്യും ഉത്പാദന ജീവിതചക്രം കുറയ്ക്കണം അതിനാൽ നിർമ്മാണ സമയം കുറയുന്നു ആഗോള വിപണിയിൽ സാങ്കേതിക പുരോഗതിയുടെ പങ്ക് പരമ്പരാഗത നിർമ്മാണ സംവിധാനത്തിൽ നിന്ന് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് കൂടുതൽ ചടുലത വേഗത്തിലുള്ള വികസനം വഴങ്ങുന്ന മാറ്റാവുന്ന പരിപാലിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവ കൈവരിക്കാൻ സാങ്കേതികവിദ്യ സഹായിക്കും സർക്കാർ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളെയും സ്വകാര്യ മേഖലകളെയും സംരക്ഷിക്കാൻ കഴിയണം സംരംഭങ്ങളെ സംരക്ഷിക്കാൻ അത് ആവശ്യമാണ് അതിനാൽ എന്റർപ്രൈസുകളെ സംരക്ഷിക്കുന്നതിന് വ്യത്യസ്ത സംരംഭങ്ങൾക്ക് അവരുടേതായ ആവശ്യകതകളുണ്ട് കൂടാതെ വ്യത്യസ്ത നിയന്ത്രണങ്ങളും നിയമങ്ങളും എത്തുമ്പോൾ അവ കണക്കിലെടുക്കേണ്ടതാണ് ഇത് ഈ സ്ഥാപനങ്ങളെ മികച്ച സേവനങ്ങളും കുറഞ്ഞ വിലയുള്ള സാധനങ്ങളും നൽകാൻ ഈ സ്ഥാപനങ്ങളെ സഹായിക്കും സർക്കാർ നിയന്ത്രണം അടിസ്ഥാനപരമായി അന്യായമായ മത്സരം ഒഴിവാക്കാനും സംഘടനയിലേയോ വ്യവസായത്തിലേയോ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരുടെയും വികസനം പരിഗണിക്കുന്ന സുസ്ഥിര പരിസ്ഥിതി പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും അതിനാൽ സർക്കാർ നിയന്ത്രണങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ സർക്കാർ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യത്യസ്ത പരിഗണനകളോ വ്യത്യസ്ത തരം നിയന്ത്രണങ്ങളോ ഉണ്ട് ഈ നിയന്ത്രണങ്ങളിൽ ചിലത് അടിസ്ഥാനപരമായി സാമ്പത്തിക പ്രശ്നങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു അവയിൽ ചിലത് സാമൂഹിക പ്രശ്നങ്ങളും ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഗണിക്കുന്നു ഒരു ബിസിനസ്സ് പ്രവേശിക്കുമ്പോൾ ഒരു സ്ഥാപനം അടിസ്ഥാനപരമായി ഒരു ബിസിനസ്സിൽ പ്രവേശിക്കുമ്പോൾ ഈ ചില നിയന്ത്രണങ്ങളെക്കുറിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ സംസാരിക്കുന്നു വിലനിർണ്ണയങ്ങൾ സർക്കാർ നിയന്ത്രണങ്ങൾ ഉണ്ട് ഇത് ഈ വില കണക്കാക്കാൻ സഹായിക്കും ആശയവിനിമയ ചാനലുകൾക്കിടയിൽ ജീവനക്കാരും എന്റർപ്രൈസസും തമ്മിലുള്ള മാനേജ്മെന്റും പാരിസ്ഥിതിക പ്രശ്നങ്ങളും തമ്മിലുള്ള ആശയവിനിമയ ചാനലുകൾക്കിടയിൽ ചാനലുകൾ തുറക്കാൻ സഹായിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ ആശങ്കയുണ്ടാക്കും ഉൽപാദന പ്രക്രിയയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ പ്രധാനമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സർക്കാർ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഉൽപാദന പ്രക്രിയ ഉണ്ടെങ്കിൽ അത് ധാരാളം മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കുകയും പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു വെള്ളം ഭൂമി വ്യത്യസ്ത വ്യാവസായിക മാലിന്യങ്ങൾ നിറഞ്ഞതാണ് ഈ ചവറുകൾ എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന സർക്കാർ നിയന്ത്രണങ്ങളുണ്ട് കൂടാതെ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളും ശരിയായി കൈകാര്യം ചെയ്യേണ്ടിവരും തൊഴിൽ പരസ്യം തൊഴിൽ നിയമങ്ങൾ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ തൊഴിലാളികളുടെ സുരക്ഷ എല്ലാവരുടെയും സുരക്ഷ ആരോഗ്യ നിയന്ത്രണങ്ങൾ വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷണം എന്നിവ സംബന്ധിച്ച സർക്കാർ നിയന്ത്രണങ്ങളുണ്ട് അടിസ്ഥാനപരമായി തൊഴിൽ തൊഴിൽ നിയമങ്ങൾ വേതനവും ശമ്പളവും സംബന്ധിച്ച നിയമങ്ങളെ പ്രതിനിധീകരിക്കുന്നു വിരമിക്കൽ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾ പാലിക്കൽ ശരിയായ തൊഴിൽ സാഹചര്യങ്ങൾ വിസ പോലുള്ള പ്രവാസി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഒരേ പ്ലാറ്റ്ഫോമിൽ വിവിധ വംശങ്ങളിൽ നിന്നുള്ള എല്ലാ തൊഴിലാളികളുടെയും സ്ഥാനക്കയറ്റവും പരിഗണനയും കണക്കിലെടുത്ത് തൊഴിലിൽ തുല്യ അവസരം അധികാരം നൽകൽ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിംഗ് സ്ഥാനം ഏത് വ്യവസായത്തിലും സാധാരണ നിലയിലുള്ള വ്യത്യസ്ത തരം നിയന്ത്രണങ്ങളാണ് ഇവ പരസ്യത്തിന്റെ കാര്യത്തിൽ പരസ്യ നിയന്ത്രണങ്ങൾ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നു ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ഉറച്ച സത്യസന്ധത പരസ്യമായി വിവര നിയന്ത്രണം തുടർന്ന് വിതരണത്തിലും നിർമ്മാണ പ്രക്രിയയിലും സുതാര്യത പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് സെൻസിറ്റീവ് വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്വകാര്യതാ നിയന്ത്രണങ്ങൾ ഒരു പ്രത്യേക സംരംഭം വ്യത്യസ്ത ജീവനക്കാരെയും മറ്റ് പങ്കാളികളെയും കുറിച്ച് ശേഖരിക്കുന്നു സുരക്ഷയും ആരോഗ്യ നിയന്ത്രണങ്ങളും ആരോഗ്യകരവും തൊഴിൽപരവുമായ അന്തരീക്ഷം മൊത്തത്തിലുള്ള സുരക്ഷ ജോലിസ്ഥലത്തെ സുരക്ഷ എന്നിവ നൽകുന്ന ആരോഗ്യപ്രശ്നങ്ങളെ ബാധിക്കും ഇവയാണ് വിവിധ തരത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ ജനസംഖ്യാ വളർച്ച ജനസംഖ്യാ വളർച്ച നിരീക്ഷിക്കുന്നത് നിർമ്മാണ വ്യവസായത്തിന് പ്രധാനമാണ് ഇത് വ്യവസായ വളർച്ച ഭക്ഷ്യവിതരണം ഫലഭൂയിഷ്ഠത സാമൂഹ്യശാസ്ത്രം സാമ്പത്തിക രാഷ്ട്രീയം വ്യവസായ ലൊക്കേഷനുകൾ ലഭ്യമായ സ്ഥലങ്ങളുടെ ഉപയോഗം എന്നിവയെ ബാധിക്കുന്നു ജനസംഖ്യാ വളർച്ച വികസിത രാജ്യങ്ങൾ വളർന്നുവരുന്ന രാജ്യങ്ങൾ വികസ്വര സമ്പദ്വ്യവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കി മൂന്ന് വ്യത്യസ്ത തരം രാജ്യങ്ങളുണ്ട് അതിനാൽ വികസ്വര രാജ്യങ്ങളുടെയും ജനസംഖ്യാ വളർച്ചയും വികസിത രാജ്യങ്ങളുടെയും ജനസംഖ്യാ വളർച്ചയേക്കാളും കൂടുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1950 മുതൽ 2050 വരെ ജനസംഖ്യാ വളർച്ച വികസിത രാജ്യങ്ങളിൽ 32 മുതൽ 13 ശതമാനം വരെ കുറഞ്ഞു വളർന്നുവരുന്നതും വികസ്വരവുമായ രാജ്യങ്ങളിൽ 8 മുതൽ 20 ശതമാനം വരെ വർദ്ധിച്ചു ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള സാമ്പത്തിക വീക്ഷണം രണ്ട് തരത്തിലാകാം അശുഭാപ്തിവിശ്വാസം ശുഭാപ്തിവിശ്വാസം ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള അശുഭാപ്തിവിശ്വാസം അടിസ്ഥാനപരമായി ബാധിക്കുന്നു ജനസംഖ്യയുടെ വർദ്ധനവ് മൂലം വ്യാപാരം വാണിജ്യം തുടങ്ങിയ ആഗോളവൽക്കരണ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ അശുഭാപ്തിവിശ്വാസം അടിസ്ഥാനപരമായി സ്വാധീനം ചെലുത്തുന്നു മറുവശത്ത് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു മറുവശത്ത് ശുഭാപ്തിവിശ്വാസം അടിസ്ഥാനപരമായി വ്യാപാരം വാണിജ്യം തുടങ്ങിയ ആഗോളവൽക്കരണ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു സുസ്ഥിരതയുടെ കാര്യത്തിൽ ജനസംഖ്യാ വളർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ് അതിനാൽ അടിസ്ഥാനപരമായി വളർച്ച സമ്പദ്വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള വളർച്ചയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് ആ പ്രത്യേക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു ദുരന്തമായി മാറും അവസാനത്തേത് അടിസ്ഥാനപരമായി സാമ്പത്തിക പ്രതിസന്ധി മാന്ദ്യത്തിന്റെയും വിഷാദത്തിന്റെയും ഇടിവ് സംഭവിക്കുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾ വീണ്ടും വർദ്ധിക്കുമ്പോൾ സമ്പദ്വ്യവസ്ഥയുടെ തുടക്കമോ ഉയർച്ചയോ ഉണ്ടാകും അതിനാൽ അടിസ്ഥാനപരമായി മാന്ദ്യത്തിൽ നിന്ന് വളർച്ചയുടെ കാര്യത്തിൽ ഒരുതരം ത്വരണം ഉണ്ടാകും സാമ്പത്തിക മാന്ദ്യത്തിന്റെ അവസാനമാണ് ഡിപ്രെഷൻ ഇത് ഗണ്യമായ തൊഴിലില്ലായ്മ വർദ്ധനവ് ലഭ്യമായ വായ്പയിലെ കുറവ് വ്യാപാരം വാണിജ്യം എന്നിവയിൽ ഗണ്യമായ കുറവ് വൻതോതിൽ പാപ്പരത്തങ്ങൾ എന്നിവയും സംഭവിക്കാം കറൻസി മൂല്യത്തിൽ ചാഞ്ചാട്ടവും രണ്ട് വർഷത്തിലധികം കാലാവധിയും ഉണ്ട് ഇത് അടിസ്ഥാനപരമായി മാന്ദ്യത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആരംഭിക്കുന്നു അത് ഏതാനും മാസങ്ങൾ നീണ്ടുനിൽക്കും തുടർന്ന് മാന്ദ്യം സമ്പദ്വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള മാന്ദ്യം അതിനുശേഷം നമ്മൾക്ക് ഡിപ്രെഷൻ ഉണ്ടാകും ഈ ഡിപ്രെഷൻ അടിസ്ഥാനപരമായി മാന്ദ്യത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് ഇവിടെ ഇതെല്ലാം സംഭവിക്കും നമുക്ക് ഇപ്പോൾ ഇവയുടെ ഓരോ കാഴ്ചയും നോക്കാം അടിസ്ഥാനപരമായി നമ്മൾ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ മാന്ദ്യ ഘട്ടം അടുത്തത് അടിസ്ഥാനപരമായി ഡിപ്രെഷൻണ് അതിനാൽ ആശയപരമായി ഇത് ഇതുപോലെ കാണപ്പെടും സാമ്പത്തിക മാന്ദ്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിൽ വിവിധ പ്രധാന വസ്തുക്കളുടെ വിലയിൽ കുറവുണ്ടാകും പ്രധാന കാര്യം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും മൊത്തം ചെലവ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയും മാന്ദ്യവും കഴിയുന്നത്ര ഉറപ്പുവരുത്തുകയും ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ ഇത് ഏറ്റവും വലിയ ആശങ്കയാണ് കാരണം അത് പരിസ്ഥിതി സൌഹൃദമായ സുസ്ഥിര വികസനത്തെ സ്വാധീനിക്കുന്നു അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ പ്രധാന വരുമാന മാർഗ്ഗം പ്രകൃതി വിഭവങ്ങളാണ് എന്നതിനാൽ സാമ്പത്തികമായി സുസ്ഥിരമായ വികസനത്തിന് വിപരീതമായി ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സാമൂഹിക സംഘർഷങ്ങളുടെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണിത് അതിനാൽ ഖനനം എണ്ണ വാതകം വേർതിരിച്ചെടുക്കൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ സാമൂഹിക പെരുമാറ്റം രാഷ്ട്രീയം സാങ്കേതികവിദ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആശങ്കകൾ ഇവയെല്ലാം പ്രകൃതി വിഭവങ്ങളുടെ പരിഗണനയിൽ പ്രധാന സംഭാവനകളാണ് പ്രകൃതി വിഭവങ്ങൾ രണ്ട് തരത്തിലാകാം റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ കൽക്കരി എണ്ണ വാതകം പുതുക്കാനാവാത്ത ഊർജ്ജ സ്രോതസ്സുകളുടെ പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത ഉദാഹരണങ്ങളാണ് തുടർന്ന് സൌരോർജ്ജം വെള്ളം കാറ്റ് പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ ഉദാഹരണങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ചചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഫോർമുല എസ് ഉപയോഗിച്ച് എസ്ഡിയിലൂടെ ആരംഭിച്ചുവെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ എസ് ഓവർ എസ്ഡി കണക്കുകൂട്ടാൻ അടിസ്ഥാനപരമായി സുസ്ഥിരതാ ഘടകമാണ് ഈ വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയത് സാങ്കേതികവിദ്യ സർക്കാർ നിയന്ത്രണം ജനസംഖ്യാ വർദ്ധനവ് പ്രതിസന്ധി മാന്ദ്യം ഡിപ്രെഷൻ പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗം എന്നിവയും അവ അനുബന്ധ കാര്യങ്ങളുമാണ് ഇവ എങ്ങനെ ഈ വ്യത്യസ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരിഗണനയ്ക്ക് എന്തെല്ലാം പ്രധാനമാണ് ഈ വ്യത്യസ്ത പ്രശ്നങ്ങൾ അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കെ ഇപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ഈ പ്രത്യേക എസ് എസ്ഡി ഫോർമുലയിലേക്ക് നോക്കേണ്ടതുണ്ട് എസ് ഓവർ എസ്ഡി അടിസ്ഥാനപരമായി സുസ്ഥിര വികസനത്തേക്കാൾ സുസ്ഥിരതയാണ് ഈ എസ് ഓവർ എസ്ഡിക്ക് എല്ലാം ഉണ്ട് ഈ എല്ലാ പാരാമീറ്ററുകളുടെയും പ്രവർത്തനമാണ് ശരിയാണ് അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ട ഈ പരാമീറ്ററുകളെല്ലാം അടിസ്ഥാനപരമായി ഇവയുടെയെല്ലാം ഒരു ഫംഗ്ഷനായി വീണ്ടും എഴുതാം കൂടാതെ ഞാൻ എസ് ഇ എസ് എന്നിവയ്ക്ക് തുല്യമാണ് അടിസ്ഥാനപരമായി സുസ്ഥിരതയിലേക്കുള്ള മാറ്റവും Y അടിസ്ഥാനപരമായി E യുടെ സുസ്ഥിരതയിലേക്കുള്ള മാറ്റത്തിന്റെ ഘടകം അതിനാൽ ഇത് അടിസ്ഥാനപരമായി നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന മൊത്തത്തിലുള്ള ഫോർമുലയാണ് നമ്മൾ ഈ എസ് ഓവർ എസ്ഡി ഫോർമുല നോക്കി എസ്ഡിക്ക് മുകളിലുള്ള എസ് ഈ കണക്കുകൂട്ടലിന് കാരണമാകുന്ന വ്യത്യസ്ത പാരാമീറ്ററുകൾക്ക് ഈ വ്യത്യസ്ത സംഭാവനകളാണ് ഈ ഘടകം അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് ഒരു പ്രത്യേക ശ്രമം സുസ്ഥിരമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് അതിനാൽ ഒടുവിൽ ഈ ആശയങ്ങൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ചില റഫറൻസ് ആണ് ഇവ